ഹലോ സ്വാഗതം ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചും പാഴ് താപം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും നമ്മൾ നമ്മളുടെ കോഴ്സ് തുടരും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്തത് ഊർജ്ജ സംഭരണ സംവിധാനങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ചയാണ് ആ പ്രഭാഷണ പരമ്പരയ്ക്കിടെ നമ്മൾ നിരവധി ഊർജ്ജത്തെക്കുറിച്ച് പഠിച്ചു എനർജി സ്റ്റോറേജ് ടെക്നോളജികൾ മെക്കാനിക്കൽ സ്റ്റോറേജ് സൂപ്പർകണ്ടക്റ്റിംഗ് മാഗ്നറ്റിക് എനർജി സ്റ്റോറേജിനെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സ്റ്റോറേജ് കെമിക്കൽ സ്റ്റോറേജ് തെർമോ കെമിക്കൽ സ്റ്റോറേജ് അങ്ങനെ മറ്റ് താപ ഊർജ്ജ സംഭരണം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയം ചിലവഴിക്കും ഈ പ്രക്രിയയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ഊർജ്ജ സംഭരണ സംവിധാനമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശക്തി എങ്ങനെ കണക്കാക്കാം ആ ഊർജ്ജ സംഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും മറ്റും ആദ്യത്തെ പ്രശ്നം കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജിൽ നിന്നാണ് അതിനാൽ അതിൽ പറയുന്നത് ഒരു കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് സൌകര്യം പരിഗണിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എയർ ഫ്ലോ റേറ്റ് കണക്കാക്കുക നമ്മൾ കംപ്രസ് ചെയ്ത വായുവിന്റെ താപനിലയും സംഭരണ വോളിയവും കണക്കാക്കണം കൂടാതെ നിരവധി കാര്യങ്ങൾ നൽകിയിരിക്കുന്നു ഉദാഹരണത്തിന് നൽകിയിരിക്കുന്നത് പീക്കിംഗ് യൂണിറ്റ് 1500MWH ആണ് അത് 7 5 മണിക്കൂർ ചാർജ് ചെയ്യുന്നു തുടർന്ന് കംപ്രസർ ഇൻലെറ്റ് അവസ്ഥകൾക്ക് മർദ്ദവും താപനിലയും കംപ്രസർ എക്സിറ്റ് മർദ്ദവും നൽകുന്നു പീക്കിംഗ് ടർബൈൻ കാര്യക്ഷമതയും കംപ്രസർ കാര്യക്ഷമതയും രണ്ടും നൽകിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ അവ വളരെ ഉയർന്നതല്ല തുടർന്ന് കുറച്ച് പ്രോപ്പർട്ടികൾ നൽകിയിരിക്കുന്നു ഈ പ്രശ്നം നമ്മൾക്ക് നൽകിയാൽ നമ്മൾ എങ്ങനെ പരിഹരിക്കും അതിനാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഓർക്കാം എല്ലാം നമുക്ക് നൽകിയത് എഴുതാം നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത് പ്രശ്നം കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത് കംപ്രസർ ഇൻലെറ്റ് എന്താണ് 20oC അത് 1 ബാർ ആണ് അതിനാൽ ഒരു അന്തരീക്ഷ കംപ്രസ്സർ ഔട്ട്ലെറ്റിന് താപനില 100 ബാർ ആണെന്ന് അറിയില്ല അതിനാൽ ഇതാണ് താപനില ഇതാണ് മർദ്ദം ശരിയാണ് മറ്റെന്താണ് നൽകിയിരിക്കുന്നത് സംഭരണം അല്ലെങ്കിൽ ടർബൈനിൽ വിതരണം ചെയ്യുന്ന ഊർജ്ജ സംഭരണം അല്ലെങ്കിൽ ഊർജ്ജം 1500 MWH ന് തുല്യമായിരിക്കണം തുടർന്ന് മറ്റ് ചില കാര്യങ്ങളുണ്ട് കംപ്രസർ പോലെ നൽകിയിരിക്കുന്നു അതിനാൽ കംപ്രസ്സർ കാര്യക്ഷമത 70 ആണ് ടർബൈൻ കാര്യക്ഷമത 60 ആണ് കൂടാതെ ടർബൈൻ കാര്യക്ഷമത 60 ആണ് കൂടാതെ മറ്റ് ചില ഗുണങ്ങളും നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ചാർജിംഗ് സമയവും നൽകിയിരിക്കുന്നു അതിനാൽ 7 5 മണിക്കൂർ സ്റ്റോറേജ് സംഭവിക്കുന്ന സമയമാണിത് അപ്പോൾ ഈ വ്യവസ്ഥകൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് കണക്കുകൂട്ടലുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുപകരം ഇതുപോലുള്ള ഒരു പ്രശ്നം എങ്ങനെ ചിട്ടയോടെ പരിഹരിക്കാം എന്ന ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുകയാണ് അതിനാൽ ഇത് കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് ആണ് കംപ്രസ്സറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നൽകുന്നത് കംപ്രസ്സറാണ് കംപ്രസറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഓർക്കുക ഇത് എന്റെ ഡയഗ്രം ആണെന്നും ഇത് ബ്രെയ്ടൺ സൈക്കിളിലെ കംപ്രസർ ഘട്ടമാണെന്നും അല്ലെങ്കിൽ അത് ഇ ആണെന്നും പറയാം ബ്രെയ്ടൺ സൈക്കിളിലെ കംപ്രഷൻ ഘട്ടത്തിന് സമാനമായി ഇത് എന്റെ പി1 അല്ലെങ്കിൽ പി ഇൻലെറ്റ് ഇതാണ് എന്റെ പി ഔട്ട്ലെറ്റ് ഞാൻ ഒരു കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് വരച്ചാൽ വീണ്ടും ഓർക്കുക ഇതാണ് എന്റെ കംപ്രസർ ഇതാണ് എന്റെ ഗ്രൌണ്ട് ലെവൽ ഇതാണ് എന്റെ സ്റ്റോറേജ് റിസർവോയർ പിന്നെ വീണ്ടും ഇത് ടർബൈനിലെ എന്റെ കൊടുമുടിയാണ് ഇവിടെ നിന്ന് എനിക്ക് വൈദ്യുതി ലഭിക്കുന്നു എനിക്ക് ഈ എക്സ്ഹോസ്റ്റ് ലഭിക്കുന്നു ഒരുപക്ഷേ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ കംപ്രസർ ഇൻലെറ്റും കംപ്രസർ ഔട്ട്ലെറ്റും 2 പോയിന്റുണ്ട് അതിനാൽ ഇതാണ് പൈയും പി0യും ഇവിടെ സംഭവിക്കുന്നത് ഞാൻ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ പോയിന്റ് നമ്മൾ എല്ലാവരും ഇതിനെ ഒന്ന് വിളിക്കാം നമുക്ക് ഇതിനെ 2 എന്ന് വിളിക്കാം അതിനാൽ ഇത് എന്റെ 1 മുതൽ 2 വരെ ആണ് ഇത് ഐസെൻട്രോപിക് ആണെങ്കിൽ അപ്പോൾ ഞാൻ ഒരു 2s വരെ ഇറങ്ങുമായിരുന്നു പക്ഷേ കംപ്രസർ ഐസെൻട്രോപിക് അല്ലാത്തതിനാൽ ഞാൻ 2 ൽ എവിടെയെങ്കിലും അവസാനിക്കും ഈ മർദ്ദമാണ് ഈ മർദ്ദം ഒരു ബാറും ഈ മർദ്ദം 100 ബാറും ആണ് എല്ലാം ശരിയാണ് എന്റെ ആദ്യ ഘട്ടം പകുതിയും പകുതിയും ഇവിടെ ഇട്ട് പരിഹരിക്കാൻ ശ്രമിക്കാം അതിനാൽ എന്റെ ആദ്യത്തെ കാര്യം ഐസെൻട്രോപിക് കംപ്രഷൻ ആണെങ്കിൽ എനിക്ക് T2sT1 എന്ന് എഴുതാം P1P2γ 1γ P1 Pi 1 ബാർ P2 P0 100 ബാർ അതിനാൽ ഇത് വേഗത്തിൽ 273 20 ലേക്ക് പോകുക എന്നത് ഓർക്കുക ഇവ കേവലമായ താപനില നൂറ് മടങ്ങ് ഇരട്ടിയാണെന്നും വായുവിന് γ വായുവിന് 1 4 ആണെന്നും നമ്മൾക്കറിയാം അല്ലാത്തപക്ഷം നൽകിയിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് r ന്റെയും മൂല്യത്തിന്റെയും മൂല്യം കണക്കാക്കാം നൽകിയിരിക്കുന്ന വായുവിനുള്ള സിപിയുടെ മൂല്യം അതിനാൽ നമുക്ക് γ കണക്കാക്കാം പക്ഷേ വായുവിനുള്ള γ പോയിന്റ് 1 4 ൽ എത്തുമെന്ന് നമുക്കറിയാം അതിനാൽ നമുക്ക് 1 4 ലേക്ക് പോകാം അതിനാൽ ഇത് എനിക്ക് T2s നൽകുന്നു 1092 2 കെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് എന്നാൽ ഈ താപനിലയാണ് എനിക്ക് ഔട്ട്ലെറ്റ് താപനില കംപ്രസർ ആവശ്യമാണ് അതിനാൽ കാര്യക്ഷമതയുടെ നിർവചനം ഉപയോഗിക്കുക അതിനാൽ എനിക്ക് T2s T1 T2 T1 എഴുതാൻ കഴിയും അത് പോയിന്റ് ഏഴായി നൽകിയിരിക്കുന്ന കംപ്രസർ കാര്യക്ഷമതയ്ക്ക് തുല്യമാണ് അതിനാൽ ഇവിടെ നിന്ന് എല്ലാം ഉപയോഗിച്ച് എനിക്ക് T2 ലഭിക്കുന്നത് 1434 7 K ആയിരിക്കും അതിനാൽ ഇത് എന്റെ പക്കലുള്ള ഒരു ഡാറ്റ പോയിന്റാണ് എല്ലാം ശരിയാണ് നിങ്ങൾ ചോദ്യം ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ എനിക്ക് ലഭിച്ചത് രണ്ടാമത്തെ ഉത്തരം കംപ്രസ് ചെയ്ത വായു താപനിലയാണ് ഇതാണ് എന്റെ കംപ്രസ് ചെയ്ത വായു താപനില ശരിയാണ് അതിനാൽ ഇത് എന്റെ കംപ്രസ് ചെയ്ത വായുവിന്റെ താപനിലയാണെന്ന് നമുക്ക് എഴുതാം അതിനാൽ ഇത് ഒരു ഉത്തരമാണ് ഇപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ കൂടി കണക്കാക്കേണ്ടതുണ്ട് അവയാണ് ഫ്ലോ റേറ്റ് ആവശ്യമായ സ്റ്റോറേജ് വോളിയം എന്നിവ അപ്പോൾ എനിക്ക് ഇപ്പോൾ താപനില മൂല്യമുണ്ടെന്ന് ഞാൻ എങ്ങനെ കണക്കാക്കും അതിനാൽ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ടർബൈൻ ഇൻപുട്ടിനായി ഒരു ടർബൈൻ ഔട്ട്പുട്ടിനായി ക്ഷമിക്കണം അത് നൽകിയത് ഈ കേസിൽ ടർബൈൻ ഔട്ട്പുട്ട് ആണെന്നും ടർബൈൻ ഒരു പീക്കിംഗ് ടർബൈൻ ആകുമ്പോൾ അത് 1500 മെഗാവാട്ട് ആണ് ശരിയാണ് എനിക്കറിയാം ടർബൈൻ കാര്യക്ഷമത 0 6 ആണ് അതിനാൽ ടർബൈൻ ഇൻപുട്ട് പവർ 0 6 MWH അല്ലെങ്കിൽ 2500 MWH കൊണ്ട് ഹരിച്ചാൽ 1500 ആകും ഇത് ഒരു പ്രധാന ഡാറ്റയാണ് ഇപ്പോൾ എന്താണ് ഈ 2500 MWH അതിനാൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് ഇതാണ് അതിനാൽ അത് തുല്യമായിരിക്കണം അവർ പമ്പ് ചെയ്ത ഊർജ്ജത്തിന് തുല്യമായ നഷ്ടമൊന്നുമില്ലെന്ന് കരുതുക ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നഷ്ടമില്ലെന്ന് കരുതുക റിസർവോയറിന് നഷ്ടമില്ല കാരണം അത് നൽകിയിട്ടില്ലാത്തത് അനുമാനങ്ങളാണ് നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നു വായു കംപ്രസ്സുചെയ്യുന്നതിലൂടെയുള്ള കംപ്രസർ ഞാൻ സംഭരിച്ച ഊർജ്ജമാണ് അതിനാൽ എനിക്ക് എന്ന് എഴുതാം ma എന്നത് 2500 MWH ന് തുല്യമായിരിക്കും ഇവിടെ എന്നത് കംപ്രസ് ചെയ്ത വായുവിന്റെ പിണ്ഡമാണ് അതിനാൽ നിങ്ങൾ മാറ്റേണ്ട MWH എനിക്ക് ലഭിക്കും അതിനാൽ 2500x106 ഉം 3600 ഉം Cp നമ്മൾക്ക് നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾ ഇത് നൽകണം Cp എന്നത് ഒരു കിലോ കെൽവിന് 1 05 കിലോ ജൂൾ ആണ് അതിന്റെ മൂല്യം ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ T2 T1 എന്നിവ നമ്മൾ T2 കണക്കാക്കിയിട്ടുണ്ടെന്നും T1 എന്നത് 20 ഡിഗ്രി ആണെന്നും നമ്മൾക്കറിയാം അതിനാൽ 293K അതിനാൽ എന്നത് 7 5x106kg ന് തുല്യമാണ് അടുത്തതായി എന്തുചെയ്യും വായു 100 ബാറിൽ സംഭരിക്കപ്പെടും 20oC ഇവിടെ തിരിച്ചുവിളിക്കും അതിനുശേഷം ഞാൻ പറഞ്ഞ 100 ബാർ ചെയ്യും ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇത് തണുപ്പിക്കുന്നു അത് യഥാർത്ഥ താപനിലയായ 20oC ലേക്ക് തണുക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഒരു സ്റ്റേറ്റിന്ന് ആവശ്യമായ അനുമാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പ്രശ്ന പ്രസ്താവന പറയുന്നതിനാൽ നമ്മൾ ഉണ്ടാക്കുന്ന അനുമാനം ഇതായിരിക്കില്ല അതിനാൽ 100 ബാറും 20oC യും എനിക്ക് സംഭരണത്തിന് ആവശ്യമായ മൊത്തം വോളിയം എഴുതാം അതിനാൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റോറേജ് വോളിയം നിങ്ങൾ pv ma R T ഉപയോഗിക്കും A m R TP ഈ സാഹചര്യത്തിൽ എന്താണ് P എന്നത് mRT ൽ P2 ആണ് നമ്മൾക്ക് 7 5 x106 R എന്താണ് ഉണ്ടായിരുന്നത് അത് ഇതിനകം 0 284 നൽകിയിട്ടുണ്ട് 75 kJkg അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് അത് ജൂളുകളായി പരിവർത്തനം ചെയ്യുക എന്നതാണ് അതിനാൽ 284 5 മടങ്ങ് താപനില വീണ്ടും T1 ലേക്ക് മടങ്ങുന്നു ഇത് മർദ്ദം കൊണ്ട് ഹരിച്ച 293 ആണ് 100 ബാർ 101 ബാർ 105 അല്ലെങ്കിൽ 100 k Pa അല്ലെങ്കിൽ 105 പാസ്കലുകൾ ആണ് അതിനാൽ ഇത് മീറ്റർ ക്യൂബിൽ 62520 ആയി മാറും ഈ കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് വ്യത്യസ്ത മൂല്യങ്ങൾ ലഭിച്ചേക്കാം അതായത് അതിനാൽ സ്റ്റോറേജ് വോളിയം ഇതാണ് ഇത് അവസാന ഭാഗം എളുപ്പമുള്ള ഒരു ഉത്തരമാണ് കാരണം എയർ ഫ്ലോ റേറ്റ് കണക്കാക്കുകയായിരുന്നു അവസാന ഭാഗം എന്താണെന്ന് അവർ ചോദിക്കുന്നു അതിനാൽ കംപ്രസറിലെ എയർ ഫ്ലോ റേറ്റ് വോളിയത്തെ 7 5 മണിക്കൂർ കൊണ്ട് ഹരിച്ചാൽ ചാർജിംഗ് സമയം നൽകിയിരിക്കുന്നത് 7 5 മണിക്കൂറാണ് ഞാൻ അതിനെ 62519 എന്ന് എഴുതാം അതായത് വോളിയം 7 5 കൊണ്ട് ഹരിക്കുന്നു അത് മണിക്കൂറിൽ മീറ്റർ ക്യൂബായിരിക്കും അത് പുറത്തുവരുന്നതെന്തും ശരിയാകും നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത് താപനില 0 2 ആണെന്ന് കണ്ടെത്തി കാരണം കംപ്രസ് ചെയ്ത വായുവിന്റെ താപനില അടുത്തതായി നമ്മൾക്ക് ആവശ്യമായ വോളിയം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നമുക്ക് ഔട്ട്പുട്ട് പവർ എന്താണ് നൽകിയിരിക്കുന്നത് ടർബൈൻ കാര്യക്ഷമത ഉപയോഗിച്ച് നമ്മൾക്ക് ടർബൈനിലേക്കുള്ള ഇൻപുട്ട് പവർ ലഭിച്ചു അത് ഊർജ്ജ ഇൻപുട്ടിനും നമ്മളുടെ ഇൻപുട്ട് ഊർജ്ജം ടർബൈനിലേക്കും തുല്യമായിരിക്കണം അത് റിസർവോയറിൽ സംഭരിച്ച ഇൻപുട്ട് എനർജിക്ക് തുല്യമായിരിക്കണം അതിനാൽ ഇൻപുട്ട് എനർജി അറിയാമെങ്കിൽ നമുക്ക് കണ്ടെത്താനാകുന്നത് m CP ∆T ന് തുല്യമാണ് പിണ്ഡത്തിന്റെ ഒഴുക്ക് എന്താണ് അല്ലെങ്കിൽ സംഭരിച്ച വായുവിന്റെ പിണ്ഡം എന്താണ് അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തി

വായുവിന്റെ പിണ്ഡം അറിയപ്പെട്ടു തുടർന്ന് മർദ്ദം 100 ബാറിൽ കുറയുമെന്ന് അനുമാനിക്കുകയും അത് തണുക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ പുനരുൽപ്പാദന ഹീറ്റ് എക്സ്ചേഞ്ചർ 20 ഡിഗ്രിയിലേക്ക് മടങ്ങുന്നത് ഇത് നമുക്ക് വ്യക്തമായി പ്രസ്താവിച്ച ഒരു അനുമാനമാണ് ഐഡിയൽ ഗ്യാസ് നിയമം ഉപയോഗിച്ച് നമുക്ക് സ്റ്റോറേജിന്റെ വോളിയം എന്താണെന്ന് കണ്ടെത്താനാകും തുടർന്ന് വോളിയം അറിഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് സംഭരിച്ചിരിക്കുന്നത് ഇത് കംപ്രസർ ഉപയോഗിച്ച് പൂരിപ്പിക്കാൻ 7 5 മണിക്കൂർ എടുത്തു അതിനാൽ റിസർവോയറിലേക്കുള്ള വായുവിന്റെ ഒഴുക്ക് നിരക്കിലെ മൂല്യം 7 5 കൊണ്ട് ഹരിച്ചാൽ ശരിയാണ് അതിനാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിന്റെ ഒരു അനുഭവം ഈ പ്രശ്നം നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് ഒരു സൌകര്യ ഊർജ്ജ സംഭരണ സൌകര്യത്തിന്റെ ഒരു കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് തരമായിരുന്നു നമ്മൾ ചില ഇൻപുട്ട് അവസ്ഥകളും ചില അനുമാനങ്ങളും ചില അനുമാനങ്ങളും ഉണ്ടാക്കി ചില മൂല്യങ്ങൾ നേടാൻ കഴിയും നമ്മൾ പരിഹരിക്കുന്ന ചില കാര്യങ്ങൾ നൽകുകയും പ്രശ്നത്തിൽ നൽകിയ ചില കാര്യങ്ങൾ അജ്ഞാതമാവുകയും ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചേക്കാം നമ്മൾ ഉപയോഗിച്ച രീതിയാണ് പ്രധാനം നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം ഈ പ്രശ്നം പമ്പ് ചെയ്ത ജലവൈദ്യുതത്തിലാണ് പമ്പ് ഹൈഡ്രോ കേസിൽ നൽകിയിരിക്കുന്നത് ഒരു പമ്പ് ഹൈഡ്രോ സ്റ്റോറേജ് സിസ്റ്റം ആണ് ജലത്തിന്റെ ശേഷി അല്ലെങ്കിൽ ബേസ് റിസർവോയർ വർക്കിൽ നിന്ന് മുകളിലെ റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് നൽകുന്നു നിങ്ങൾക്ക് ഇവിടെ ബേസ് റിസർവോയർ ഉണ്ടെന്നും തുടർന്ന് പാറയുടെ മുകളിൽ മറ്റൊരു റിസർവോയർ ഉണ്ടെന്നും ഓർക്കുക ഇത് അടിസ്ഥാന ജലസംഭരണിയാണ് ഇതാണ് എന്റെ ഏറ്റവും ഉയർന്ന റിസർവോയർ അതിനാൽ ഇത് പെട്ടെന്നുള്ള ജലവൈദ്യുത പ്രശ്നമാണ് 5 മണിക്കൂർ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവിടെ റിലീസ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ നമ്മൾ സ്റ്റോർ എനർജി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഊർജ്ജം പുറത്തെടുക്കുമ്പോൾ ഫലപ്രദമായ തല 500 മീറ്ററാണെങ്കിൽ നമുക്ക് അത് 5 മണിക്കൂർ ഉപയോഗിക്കാം അതിനാൽ ഫലപ്രദമായ തല മൊത്തത്തിലുള്ള തലയ്ക്ക് തുല്യമായേക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം ഇത് എന്റെ തലയാണ് ഫലപ്രദമായ തല ഇതിലും കുറവായിരിക്കാം കാരണം 500 മീറ്ററിൽ ചില നഷ്ടങ്ങൾ ഫലപ്രദമാകും ഉൽപ്പാദനക്ഷമത 90 ആണ് ശരാശരി പവർ ഔട്ട്പുട്ടും ആകെയും കണക്കാക്കുക 5 മണിക്കൂറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതിനാൽ ഇതാണ് ഇവിടെ വീണ്ടും ഇവിടെ കാണിക്കുന്നത് ഫലപ്രദമായ ഹെഡ് 500m ജനറേറ്റഡ് കാര്യക്ഷമതയാണ് നൽകിയിരിക്കുന്നത് ശരാശരി പവർ ഔട്ട്പുട്ടും 5 മണിക്കൂറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വൈദ്യുതോർജ്ജവും കണക്കാക്കുക അതിനാൽ നമുക്ക് ആദ്യം ഇത് ചെയ്യാം തുടർന്ന് രണ്ടാം ഭാഗം താരതമ്യം ചെയ്യാം ആദ്യം ഇത് പമ്പ് ചെയ്ത ജലവൈദ്യുത പ്രശ്നത്തിന്റെ ശേഷി കാണും എന്താണ് കപ്പാസിറ്റി 7x 106 m3 ആണെന്ന് നിങ്ങൾക്കറിയാം ഇത് ജലത്തിന്റെ അളവാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്താണ് ഫ്ലോ റേറ്റ് ഉണ്ടാക്കുന്നത് ടർബൈൻ വലത്തിലേക്കുള്ള ഒഴുക്ക് നിരക്ക് എത്രയാണ് വൈദ്യുതി ഉൽപാദന സമയത്ത് ടർബൈനിലേക്കുള്ള ഒഴുക്ക് നിരക്ക് എത്രയാണ് എനിക്ക് ഇത് 7x 106 വിഭജിച്ച് എഴുതാം 5 മണിക്കൂറിനുള്ളിൽ ടർബൈനിലേക്ക് നൽകുന്ന വോളിയം ഇതാണ് അതിനാൽ ഞാൻ ഇത് 5 x 3600 ആയി എഴുതും 5 മണിക്കൂറിനുള്ളിൽ നിരവധി സെക്കൻഡുകൾ ഉണ്ട് നമ്മൾ ഒരു സെക്കൻഡിൽ ക്യൂബ് എടുക്കുന്നു അത് 389m3s ആയി വരുന്നു ശരാശരി പവർ ഔട്ട്പുട്ട് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നു ശരാശരി ശക്തി ഔട്ട്പുട്ട് അത് എന്തായിരിക്കും വോളിയം ഫ്ലോ റേറ്റ് സമയത്തിന്റെ മർദ്ദം കുറയുന്നത് നമുക്ക് അറിയാം അതിനാൽ നമുക്ക് ഇത് ρ g HT എന്ന് എഴുതാം അതാണ് ടർബൈൻ ടൈംസ് ഫ്ലോ റേറ്റിലെ ഫലപ്രദമായ ഹെഡ് അല്ലെങ്കിൽ ഞാൻ സാധാരണയായി V കൊണ്ട് സൂചിപ്പിക്കുന്ന ഫ്ലോ റേറ്റ് ഇവിടെ എഴുതാം നമ്മൾ അതിനെ VT വി ടർബൈൻ എന്നും എഴുതാം ഫ്ലോ റേറ്റ് ടൈംസ് ഔട്ട്പുട്ട് ഇതാണ് ജനറേറ്റർ കാര്യക്ഷമത നൽകുന്ന ടർബൈൻ കാര്യക്ഷമതയാൽ നമ്മൾ ഗുണിക്കണം അതിൽ ƞg ജനറേറ്റർ കാര്യക്ഷമത 90 എന്ന് ഞാൻ എഴുതാം അതിനാൽ ഇത് എല്ലാം അറിയപ്പെടുന്നതായി മാറുന്നു rho ആയിരം പോലെയാണ് ഞാൻ ഇത് ആദ്യമായി എഴുതും അടുത്ത തവണ ഞാൻ 9 81 തവണ പമ്പിംഗ് ഹെഡ് ചെയ്യില്ല 500 മടങ്ങ് വോളിയം ഫ്ലോ റേറ്റ് ആയിരുന്നു 389 മടങ്ങ് ജനറേറ്റർ കാര്യക്ഷമത 0 9 ആണ് ഇത് എന്തായിരിക്കും എന്നത് വാട്ട്സ് ആകും ഇത് 1 72 GW ആയി മാറും ഇത് ആദ്യത്തെ ഉത്തരമാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്താണ് ഇത് 5 മണിക്കൂർ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് ഞാൻ ഇത് 1 72 x 5 GW hr എന്ന് എഴുതും ഇത് 8 6 GW hr വ്യക്തമാണ് നമ്മൾ ഇത് പരിഹരിച്ചു അടുത്ത ഭാഗം എന്താണ് അടുത്ത പ്രശ്നം റിസർവോയർ റീഫിൽ ചെയ്യാൻ 6 5 മണിക്കൂർ എടുക്കും അതായത് പമ്പിംഗ് സമയത്ത് അതിനാൽ സാങ്കൽപ്പികമായതിനാൽ പമ്പിംഗ് 530 മീറ്റർ ആകുമ്പോൾ ഫലപ്രദമായ തല വലിച്ചിടുക കൂടാതെ 90 ഊർജ്ജ ദക്ഷതയുള്ള പമ്പുകൾക്ക് ടർബൈനിലെ പോലെ തന്നെ മൊത്തം വൈദ്യുതോർജ്ജം പമ്പ് ചെയ്യുന്നതിനുള്ള ഇൻപുട്ട് പവർ കണക്കാക്കുക ഇവിടെ ഞാൻ കുറച്ച് വേഗത്തിൽ നീങ്ങുന്നു ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾക്കറിയാം ഫലപ്രദമായ ഹെഡ് എച്ച്പി 530 മീറ്റർ ആണ് ഫ്ലോ റേറ്റ് എന്താണ് ഇത് 6 5 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു നമ്മൾ വീണ്ടും അതേ വോളിയം ഫ്ലോ റേറ്റ് 7x 106 6 5 x 3600 കാണുകയും അത് 299 m3s ആയി മാറുകയും ചെയ്യും അതിനാൽ ഇൻപുട്ട് പവർ ρ g പമ്പിംഗ് ഹെഡ് മടങ്ങാണ് പമ്പിലേക്കുള്ള ഫ്ലോ റേറ്റ് മടങ്ങ് പമ്പിംഗ് പവർ കൊണ്ട് ഹരിച്ചിരിക്കുന്നത് കാരണം പമ്പിലേക്കുള്ള ഇൻപുട്ട് പവർ അത് നേടിയെടുക്കുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതലായിരിക്കണം പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം ഇവിടെ ഞാൻ എല്ലാം എഴുതുന്നില്ല ഇത് മാറുന്നു 1 രണ്ടാമത്തേത് പമ്പിംഗിനുള്ള വൈദ്യുതോർജ്ജമാണ് അത് 6 5 GWH ആണ് അത് 11 2 GWH ആയി മാറുന്നു അവസാനത്തേത് പമ്പ് ചെയ്ത ഹൈഡ്രോ സ്റ്റോറേജ് പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത എന്താണ് ഇത് വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക ഇത് ഊർജ്ജ ഉൽപ്പാദനത്തെ ഉപയോഗിച്ച ഊർജ്ജത്താൽ വിഭജിക്കുന്നതാണ് ഞാൻ വീണ്ടും വലിയക്ഷരങ്ങളിൽ എഴുതും പവർ അല്ല സാധാരണയായി തെർമോഡൈനാമിക് സൈക്കിളുകൾ മുതലായവ പരിഹരിക്കുമ്പോൾ നമ്മൾ പവർ ഇൻപുട്ട് ഉപയോഗിക്കുന്നത് പവർ ഔട്ട്പുട്ട് വാക്യങ്ങൾ പവർ ഇൻപുട്ട് ആയിരുന്നു വാട്ട്സ് എന്നാൽ ഇവിടെ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേസമയം സംഭവിക്കാത്ത ഒരു സൈക്കിളിൽ അത് ഒരേസമയം സംഭവിക്കുന്നു അതിനാൽ സമയം ഒന്നുതന്നെയാണ് ശരിയാണ് അതിനാൽ ഓരോ യൂണിറ്റ് സമയത്തിനും വരുന്ന ഓരോ യൂണിറ്റ് സമയവും പുറത്തുപോകുന്നുണ്ടോ അതിനാൽ നമ്മൾ കാര്യമാക്കുന്നില്ല അതിനാൽ ശക്തിയുടെ അനുപാതം കാര്യക്ഷമത നൽകുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് ഊർജ്ജത്തിന്റെ പ്രശ്നമാണ് ശരിയാണ് അതിനാൽ നിങ്ങളാണെങ്കിൽ പവർ മൂല്യങ്ങൾ പവർ മൂല്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല നമുക്ക് എന്താണ് ലഭിച്ചത് എന്ന് ഓർക്കുക നമ്മൾക്ക് 1 75 ഇൻപുട്ട് പവറും 1 72 ഔട്ട്പുട്ട് പവറും ആണ് കാര്യക്ഷമത ഏകദേശം 100 ന് അടുത്താണ് അതിനാൽ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുകയാണ് നമ്മൾ 8 2 എന്ന പവർ ഉപയോഗിക്കാൻ പോകുന്നു അത് ഏകദേശം 77 ആയി മാറുന്നു ശരി അതിനാൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഊർജ്ജ സംഭരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾക്ക് ഒരു അനുഭവം നൽകുമെന്ന് ഞാൻ കരുതുന്നു അത് നമ്മളുടെ ചർച്ചയെ അവസാനിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുതരാം ഇത് താപ ഊർജ്ജ സംഭരണത്തിനുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത് ഒരു ബേസ് ഫ്ലോ 1000 മെഗാവാട്ട് പവർ പ്ലാന്റിനെക്കുറിച്ചാണ് അത് വിവേകപൂർണ്ണമായ ഊർജ്ജ സംഭരണ സംവിധാനത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് ഇത് പ്രഷറൈസ്ഡ് ജല സംഭരണത്തെക്കുറിച്ചാണ് തുടർന്ന് സംഭരിക്കുന്ന താപ energy ർജ്ജത്തെ പ്രതിദിനം 4000 മെഗാവാട്ട് വൈദ്യുതോർജ്ജം ഉത്പാദിപ്പിക്കാൻ വിളിക്കുന്നു അതിനാൽ പ്രതിദിനം 4000 മെഗാവാട്ട് എച്ച് ഔട്ട്പുട്ട് എല്ലാം ശരിയാണ് തുടർന്ന് നന്നായി ഇൻസുലേറ്റ് ചെയ്ത 4 മീറ്റർ വ്യാസമുള്ള അക്യുമുലേറ്ററുകളുടെ ഒരു ശ്രേണിയുണ്ട് അതിനാൽ ബാഹ്യ താപ കൈമാറ്റ ഗുണകത്തിന് സംഭരണ സമയം നൽകുകയും പരമാവധി കുറഞ്ഞ മർദ്ദവും നൽകുകയും ചെയ്യുന്നു പുറത്തെ താപനിലയും എല്ലാ കാര്യങ്ങളും നൽകിയിരിക്കുന്നു നമ്മൾ ടേൺറൌണ്ട് കാര്യക്ഷമത കണക്കാക്കേണ്ടതുണ്ട് 200 kPa മുതൽ 2000 kPa വരെ വെള്ളം കംപ്രസ്സുചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ ഓർക്കുക ഒരു അളവിലുള്ള ഊർജ്ജം സംഭരിക്കപ്പെട്ടിട്ടുണ്ട് ρf ρf എന്നിവ എങ്ങനെ കണക്കാക്കാം എന്ന് നമ്മൾ പരിഹരിച്ചു 2 താപനിലയിൽ ശരാശരി നിർദിഷ്ട വോളിയം നമ്മൾ എടുക്കുന്നു ഇവയാണ് പൂരിത അവസ്ഥകൾക്ക് ലഭിക്കുന്നത് സ്റ്റീം ടേബിളുകളിൽ നിന്നുള്ള ഗുണങ്ങൾ അതിനാൽ ഈ ഭാഗം നമ്മൾ ഇതിനകം തന്നെ കൃത്യമായി അതേ മൂല്യങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് ചർച്ചചെയ്യുമ്പോൾ അത് സംഭരിച്ചിരിക്കുന്നു എനിക്ക് 200 കിലോ പാസ്കലും 2000 കിലോ പാസ്കലും അനുബന്ധ പൂരിത താപനിലയും 212oC ആയി മാറുന്നു എന്നാൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭരിച്ചാൽ അത് ചൂട് നഷ്ടപ്പെടുകയും പുറത്തുനിന്നുള്ള ഊഷ്മാവ് 25oC ആയതിനാൽ 15 മണിക്കൂർ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ ടേൺറൌണ്ട് എഫിഷ്യൻസി ഫോർമുല ρCvha ഉപയോഗിക്കുക v സീലിംഗ് റീകോളക്റ്റിംഗ് അക്യുമുലേറ്ററിന് വോളിയം π d24l ഉം പുറം വിസ്തീർണ്ണം വീണ്ടും π d l ഉം ആണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം ആ സമവാക്യത്തിൽ ഇടുന്ന സമയ സ്ഥിരത നമുക്ക് ലഭിക്കും നമുക്ക് ടേൺറൌണ്ട് കാര്യക്ഷമത ലഭിക്കും തുടർന്ന് പ്രതിദിനം 1000 MWH വൈദ്യുതോർജ്ജത്തിന് ആവശ്യമായ ആകെ തുക എത്രയാണ് അതിനാൽ അവിടെ നിന്ന് നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ആവശ്യമായ അക്യുമുലേറ്റീവ് വോളിയത്തിന്റെ അളവ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു കൂടാതെ നമുക്ക് ആവശ്യമുള്ള സഞ്ചിത വോളിയം എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ഇത് ഒരു അസൈൻമെന്റിനോ മറ്റെന്തെങ്കിലുമോ വേണ്ടി ഉപേക്ഷിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ചർച്ച ചെയ്തതെന്തും ഉപയോഗിക്കാം ഒരിക്കൽ കൂടി വളരെ നന്ദി ഇപ്പോൾ നമ്മുടെ ഊർജ്ജ സംഭരണ ചർച്ചകൾ അവസാനിപ്പിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഒരു പുതിയ വിഷയം എടുക്കും